ഈ പാഠത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ് ആമ്പ് സർക്യൂട്ടുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവത്തെ പറ്റിയാണ് അതായത് വാസ്തവത്തിൽ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ് ബാക്കിൽ ആണോ എന്ന് പരിശോധിക്കുന്നതിനെ പറ്റിയാണ് കാരണം വളരെ നിർണായക സവിശേഷതയായ ഓപ് ആമ്പിൻറെ ഇൻപുട്ട് ടെർമിനലുകൾ ക്ക് ഇടയിലുള്ള ഉള്ള വെർച്വൽ ഷോർട്ട് ന് സാധുത ഉള്ളത് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഉള്ളപ്പോൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള സർക്യൂട്ട് ഞാൻ എടുക്കട്ടെ ഈ വ്യത്യാസം Vd എന്ന പദം ആണ് പിന്നെ ഓപ് ആമ്പ് ഗെയിൻ A0 ആണ് അതായത് ഔട്ട്പുട്ട് A0V d ആണ് ഞാനിവിടെ Vi കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ V0 കിട്ടുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവിടെ Vi കൊടുത്തു എന്നു പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഇത് ഈ പോയിൻറ് നും ഗ്രൌണ്ട് നും ഇടയിലാണ് എന്നുള്ളത് അതുപോലെതന്നെ ഈ നോഡ് ൽ V0 ലഭ്യമാകും എന്നു ഞാൻ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അത് ഈ പോയിൻറ്നും ഗ്രൌണ്ട് നോഡിനും ഇടയിൽ ആണ് എന്നാണ് വോൾട്ടേജ് എപ്പോഴും അളക്കുന്നത് രണ്ട് പോയിൻറ്കൾക്ക് ഇടയിലാണ് ഇവിടെ ഒരു പോയിൻറ്നെ കുറിച്ച് മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് അർത്ഥമാക്കുന്നത് എവിടെയോ ഒരു റഫറൻസ് നോഡ് ഉണ്ട് എന്നും അത് മറ്റൊരു ഒരു പോയിൻറ് ആയി പ്രവർത്തിക്കുന്നു എന്നുമാണ് നിങ്ങൾ വോൾട്ടേജ് വ്യത്യാസം ഒരു നോഡിനും റഫറൻസ് നോഡിനും ഇടയിൽ ആണ് വ്യക്തതപെടുത്തേണ്ടത് വിശകലനത്തിൽ നിന്ന് നമുക്ക് അറിയാം അതായത് ഈ റെസിസ്റ്ററുകൾ R ഉം R ഉം ആണെങ്കിൽ V0Vi എന്നുള്ളത് k11kA0 ആണ് എന്നും A0 അനന്തതയിലേക്ക് പോകുമ്പോൾ ഇത് പൂജ്യത്തിന് സമം ആയി മാറും എന്നും ഇതാണ് ഒരു ഉത്തമമായ ഓപ് ആമ്പിൻറെ മൂല്യം ഇപ്പോൾ വളരെ വളരെ ചെറുത് എന്ന് തോന്നുന്ന ഒരു മാറ്റം ഞാൻ സർക്യൂട്ടിൽ വരുത്തട്ടെ അതായത് ഞാൻ ആകെ ചെയ്യാൻ പോകുന്നത് ഓപ് ആമ്പിൻറെ ടെർമിനലുകൾ നേർവിപരീതം ആക്കുകയാണ് അതായത് V0k മുൻപ് ബന്ധിപ്പിച്ചിരുന്നത് നെഗറ്റീവ് ടെർമിനലിൽ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ അത് പോസിറ്റീവ് ടെർമിനലിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് Vi മുൻപ് പോസിറ്റീവ് ടെർമിനലിൽ ആണ് ബന്ധിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇൻപുട്ടുകൾ തമ്മിൽ പരസ്പരം മാറ്റുക മാത്രമാണ് ചെയ്തത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് സർക്യൂട്ട് വയറിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വയറുകൾ തമ്മിൽ പരസ്പരം മാറ്റുകയാണ് വേണ്ടത് ഓപ് ആമ്പിൻറെ നിർവ്വചനം ഇപ്പോഴും അതു തന്നെയാണ് Vd എന്നുള്ളത് പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയിൽ ഉള്ളതാണ് ഔട്ട്പുട്ട് A0 x Vd ആണ് അതിൽ A0 ഒരു പോസിറ്റീവ് സംഖ്യയാണ് അത് ഒരു വലിയ പോസിറ്റീവ് സംഖ്യയാണ് ഇത് Vd എന്ന വോൾട്ടേജ് നെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു നിയന്ത്രണ ഉറവിട ത്തിന് തുല്യമായിരിക്കും ഇപ്പോൾ ഞാൻ മുൻപത്തെ സർക്യൂട്ടിൽ ചെറിയ മാറ്റം വരുത്തിയ ഈ സർക്യൂട്ട് വിശകലനം ചെയ്യട്ടെ ഇപ്പോൾ എൻറെ Vd ഈ പൊളാരിറ്റി യിൽ ആയിരിക്കും കാരണം അത് നിർവചിച്ചിരിക്കുന്നത് ഓപ് ആമ്പിൻറെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ആണ് പിന്നെ V0 തീർച്ചയായും A0 x Vd ആയിരിക്കും അങ്ങനെയെങ്കിൽ എൻറെ കയ്യിൽ എന്താണുള്ളത് V0 എന്നത് A0 Vd ആണ് അത് ഇപ്പോൾ ഈ വോൾട്ടേജ് ന്യൂനം ആ വോൾട്ടേജ് ആണ് അതായത് V0k Vi ഇത് ഞാൻ പുനഃക്രമീകരിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഇതാണ് A0 x Vi സമം A0k 1V0 ആണ് അതിനാൽ V0Vi എന്നുള്ളത് A0A0k 1 ആയിരിക്കും ഓർക്കുക മുൻപത്തെതിൽ ഉണ്ടായിരുന്ന ഒരേയൊരു വ്യത്യാസം എന്നത് അവിടെ നമ്മൾ ഒരു 1 കൊടുത്തിരുന്നു എന്നതാണ് ഇത് k1 kA0 എന്നും മാറ്റിയെഴുതാം എന്നാൽ മുൻപ് ഭിന്നസംഖ്യാഛേദം 1kA0 ആയിരുന്നു ഇപ്പോൾ ഇതിൽ വലിയ ഒരു മാറ്റം ഉള്ളതായി കാണുന്നില്ല കാരണം നമ്മൾ പരിഗണിക്കുന്നത് kA0 വളരെ ചെറുതായി ട്ടുള്ള സാഹചര്യങ്ങൾ ആണ് എന്തെന്നാൽ ഓപ് ആമ്പ് ഗെയിൻ A0 വളരെ വലുതാണ് kA0 വളരെ ചെറുതായിരിക്കുമ്പോൾ ഈ ആവിഷ്കരണവും മുൻപത്തെ ആവിഷ്കരണവും k ക്ക് തുല്യമായിരിക്കും അഥവാ k ക്ക് ഏകദേശം തുല്യമായിരിക്കും ഇത് ഞാൻ യഥാക്രമം എഴുതട്ടെ യഥാർത്ഥത്തിൽ V0 Vi യുടെ ആവിഷ്കരണം k1kA0 ആയിരുന്നു എന്നാൽ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നേർവിപരീതം ആകുമ്പോൾ അത് k1 kA0 ആകും അപ്പോൾ Vi V0k ക്ക് തുല്യം ആയിട്ടുള്ള Vd എന്ന വോൾട്ടേജ് വ്യത്യാസം അടിസ്ഥാനപരമായി kA0 1kA0 x Vi ആണ് ഇതായിരുന്നു ആദ്യത്തെ സാഹചര്യം ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നേർവിപരീതം ആകുമ്പോൾ ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വോൾട്ടേജ് Vd എന്നത് V0k Vi ആണ് അത് kA0 1 kA0 x Vi ക്ക് തുല്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഓരോ സാഹചര്യത്തിലും Vd എന്താണ് എന്നുള്ളത് പരിഗണിക്കുക ആദ്യത്തെ സാഹചര്യത്തിൽ ഇത് Vi V0k ആയിരുന്നു ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നേർവിപരീതം ആക്കിയപ്പോൾ ഇത് V0k Vi ആയി Vi ക്ക് വിധേയമായി നോക്കുമ്പോൾ അത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് ആയി മാറുന്നു വീണ്ടും പറയട്ടെ അവിടെ വലിയ വ്യത്യാസം ഉള്ളതായി കാണുന്നില്ല കാരണം ഈ kA0 എവിടെയാണെങ്കിലും ഒന്നിനേക്കാൾ വളരെ ചെറുതായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവസാനമായി A0 അനന്തതയിലേക്ക് പോകുമ്പോൾ അതായത് ഓപ് ആമ്പ് ഒരു ഉത്തമമായ ഓപ് ആമ്പ് ആയിരിക്കുമ്പോൾ ഈ V0Vi എന്നുള്ളത് k ആയിരിക്കും കാരണം ഇവിടെയുള്ള ഈ പദവും അവിടെയുള്ള ഈ പദവും അപ്രത്യക്ഷമാകും അങ്ങനെ kA0 പൂജ്യം ആകും അതിനാൽ V0Vi k ആകും അതിനാൽ ഈ വിശകലനത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഓപ് ആമ്പിൻറെ ഇൻപുട്ട് ചിഹ്നങ്ങൾ എവിടെ ആണെങ്കിലും സർക്യൂട്ട് പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിൽ ആണ് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് kA0 എന്നുള്ളത് 11000 ആണെങ്കിൽ ഈ സംഖ്യ ആ സംഖ്യയെക്കാൾ അൽപ്പം ചെറുതായിരിക്കും അത്രമാത്രം അതുപോലെതന്നെ രണ്ടു സാഹചര്യങ്ങളിലും വോൾട്ടേജ് വ്യത്യാസം വളരെ ചെറുതാണ് എന്തെന്നാൽ ഇത് kA0 ക്ക് അനുപാതികമാണ് അവസാനമായി A0 അനന്തതയിലേക്ക് പോകുമ്പോൾ ഇവ രണ്ടും k യുടെ ഉത്തമമായ മൂല്യത്തിലേക്ക് പോകും പക്ഷേ ഇത് ആ വിധം അത്രയെളുപ്പത്തിൽ പ്രവർത്തിക്കില്ല അപ്പോൾ മൌലികമായ സർക്യൂട്ട് നമ്മൾ ഉദ്ദേശിച്ചത് പോലെ പ്രവർത്തിക്കും എന്നാൽ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നേർവിപരീതം ആക്കി നിങ്ങൾ ഒരു സർക്യൂട്ട് നിർമിക്കുകയാണെങ്കിൽ അത് ഇതുപോലെ പ്രവർത്തിക്കുകയില്ല ഈ സാഹചര്യത്തിൽ Vd ഇത് ആയിരുന്നിട്ടുകൂടി ഇത് വലിയൊരു മൂല്യത്തിലേക്കു വ്യതിചലിക്കുന്നു ഈ ബീജഗണിതം പറയുന്നത് രണ്ട് സാഹചര്യങ്ങളിലും Vd വളരെ ചെറുതാണ് എന്നും അതുപോലെ A0 അനന്തതയിലേക്ക് പോകുമ്പോൾ Vd പൂജ്യത്തിലേക്ക് പോകും എന്നും ഓപ് ആമ്പിൻറെ ഇൻപുട്ടുകൾ ഇപ്പോഴും സാങ്കല്പികമായി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നും ആണ് ഈ ബീജഗണിതത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് ഇതാണെങ്കിൽ പോലും ചിഹ്നങ്ങളെ നേർവിപരീതം ആക്കി വെച്ച് നിങ്ങൾക്ക് ഓപ് ആമ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല ഈ ആവിഷ്കാരത്തിൽ A0 അനന്തതയിലേക്ക് പോവുകയാണെങ്കിൽ ഈ വോൾട്ടേജ് വ്യത്യാസം Vd പൂജ്യം ആകും ഓപ് ആമ്പിൻറെ ഇൻപുട്ടുകൾ സാങ്കല്പികമായി ഷോർട്ട് ചെയ്യപ്പെട്ടതായി തോന്നുമെങ്കിലും അവ അങ്ങനെ ആയിരിക്കില്ല ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നേർവിപരീതം ആക്കി നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് നിർമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും Vd വലിയൊരു മൂല്യത്തിലേക്ക് വ്യതിചലിക്കുന്നു എന്നുള്ളത് അവ എന്തുകൊണ്ട് വ്യതിചലിക്കുന്നു എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു തരാം നമുക്ക് അത് ഇവിടെ വിശകലനം ചെയ്യാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ഓപ് ആമ്പിൻറെ മാതൃക ഒരു നിയന്ത്രണ ഉറവിടം മാത്രമുള്ള ലളിതമായ മാതൃകയാണ് ഇതിൽ ഓപ് ആമ്പിൻറെ ചലനാത്മകതകൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഓപ് ആമ്പിൻറെ ചലനാത്മകതകൾ ഉൾക്കൊള്ളിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് വ്യത്യാസം വളരെ വലിയ മൂല്യത്തിലേക്ക് വ്യതിചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ സർക്യൂട്ട് നിർമ്മിച്ച രീതിയിൽ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരുന്നു എന്നാൽ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നേർവിപരീതം ആക്കുമ്പോൾ ഓപ് ആമ്പ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആണ് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ഇൻപുട്ടുകൾ സാങ്കൽപ്പികമായി ഷോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ആശയം ഇതാണ് തന്നിരിക്കുന്ന സർക്യൂട്ടിലെ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ എന്ന് നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ സാധിക്കണം ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഗെയിൻ വളരെ വലുതാകുമ്പോൾ ഇതിൻറെ ഇൻപുട്ട് വോൾട്ടേജുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായിരിക്കും ഓപ് ആമ്പ് ഗെയിൻ അനന്തതയിലേക്ക് പോകുകയാണെങ്കിൽ ഇത് പൂജ്യമായിരിക്കും അതായത് അവയുടെ ഇടയിൽ ഒരു സാങ്കൽപ്പികമായ ഷോർട്ട് ഉണ്ടായിരിക്കും ഓപ് ആമ്പ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആണെങ്കിൽ ഇവയൊന്നും വാസ്തവം ആകില്ല ഇതിൻറെ ഇൻപുട്ട് വോൾട്ടേജുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഉപയോഗശൂന്യമായ സർക്യൂട്ട് ആയിരിക്കും ഓപ് ആമ്പിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗപ്പെടുത്തുന്ന മറ്റുചില സർക്യൂട്ടുകൾ ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ പരിഗണിക്കുന്ന ആംപ്ലിഫയറുകൾക്കും അതുപോലെയുള്ള എല്ലാത്തരം ലീനിയർ സർക്യൂട്ടുകൾക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവശ്യമാണ് അതിനാൽ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ചിട്ടയായ ഒരു രീതിയുടെ ആവശ്യം നമുക്ക് ഇല്ല അതിനാൽ ഇപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക ഓപ് ആമ്പ് ഉത്തമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഓപ് ആമ്പിൻറെ ഇൻപുട്ട് ചിഹ്നങ്ങൾ ഏകപക്ഷീയം അല്ല എന്തെന്നാൽ ഞാൻ ഉറപ്പു തന്നിരുന്നത് പോലെ ആദ്യമേ തന്നെ പറയട്ടെ A0 യുടെ മൂല്യം പരിമിതം ആണെങ്കിൽ പോലും A0 വളരെ വലുതാണെങ്കിൽ മൌലികമായ ചിഹ്നങ്ങൾ ഉള്ളവയുടെയും ചിഹ്നങ്ങൾ നേർവിപരീതം ആക്കിയവയുടെയും പ്രകടനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണെന്ന് തോന്നും മാത്രമല്ല രണ്ട് സാഹചര്യങ്ങളിലും A0 അനന്തതയിലേക്ക് പോകുമ്പോൾ ഇൻപുട്ടുകൾ സാങ്കൽപ്പികമായി ഷോർട്ട് ചെയ്യപ്പെടും പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല സാഹചര്യം ആയതിനാൽ ഓപ് ആമ്പിൻറെ മാതൃകയിലെ അപര്യാപ്തത ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾ ഓപ് ആമ്പിൻറെ ചലനാത്മകതകൾ മാതൃകയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഓപ് ആമ്പ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആണെങ്കിൽ ഇൻപുട്ടുകൾ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം വളരെ വലിയ മൂല്യത്തിലേക്ക് വ്യതിചലിക്കുകയും നമുക്ക് മുൻപ് ഉണ്ടായിരുന്ന ആകർഷകമായ എല്ലാ സർക്യൂട്ട് പ്രവർത്തനരീതികളും ലഭിക്കാതെ ആവുകയും ചെയ്യും